ഈ ഗ്രാഫ് API എക്സ്പ്ലോറർ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ API യുടെ ഗ്രാഫുകൾ പഠിച്ചു 0016 പ്രോഗ്രമാറ്റിക്കായി ഡാറ്റ എങ്ങനെ ശേഖരിക്കാമെന്ന് നമ്മൾ ഇപ്പോൾ പഠിക്കും ഇപ്പോൾ ഇത് ചെയ്യുന്നതിൽ ഒരു പ്രശ്നം നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസ് ടോക്കണുകളുടെ ആയുസ്സ് ആണ് ഗ്രാഫ് API ൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നതിന് ആക്സസ് ടോക്കൺ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഓർക്കുന്നുവെങ്കിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം ഈ ടോക്കണുകൾക്ക് വളരെ കുറഞ്ഞ ആയുസ്സ് ഉണ്ട് എന്നതാണ് 0037 ഉദാഹരണത്തിന് ആക്സസ് ടോക്കൺ ഡീബഗ്ഗർ ടൂളിൽ നിങ്ങൾ ഈ ആക്സസ് ടോക്കൺ തുറന്നാൽ സ്ലൈഡ് സമയം കാണുക 0045 ഈ ടോക്കൺ 38 മിനിറ്റിനുള്ളിൽ കാലഹരണപ്പെടുന്നതായി നിങ്ങൾ ശ്രദ്ധിക്കും അതായത് 38 മിനിറ്റിനു ശേഷം ഈ പ്രത്യേക ടോക്കൺ ഉപയോഗിച്ച് നിങ്ങൾ ഗ്രാഫ് API യ്ക്ക് ഒരു അഭ്യർത്ഥന നൽകിയാൽ API ഒരു ഡാറ്റയും നൽകില്ല പകരം ഈ ടോക്കൺ എന്ന് പറയുന്നതിൽ ഒരു പിശക് ലഭിക്കും അസാധുവായതോ കാലഹരണപ്പെട്ടതോ ദീർഘകാലത്തേക്ക് പ്രോഗ്രമാറ്റിക്കായി ഡാറ്റ ശേഖരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഓരോ ഒന്നോ രണ്ടോ മണിക്കൂറിലും നിങ്ങൾക്ക് സ്വമേധയാ പുതിയ ടോക്കണുകൾ സൃഷ്ടിച്ച് കോഡിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അതിനാൽ ഈ ടോക്കണുകളുടെ സാധുത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം Facebook നൽകുന്നു എന്നാൽ അതിനായി നിങ്ങൾ സ്വന്തമായി ഒരു ആപ്പ് സൃഷ്ടിക്കേണ്ടതുണ്ട് 0120 ഒരു ആപ്പ് സൃഷ്ടിക്കാൻ നിങ്ങൾ ആദ്യം സ്വയം ഒരു ഡവലപ്പറായി രജിസ്റ്റർ ചെയ്യണം പേജിന്റെ മുകളിൽ വലതുവശത്തുള്ള നീല രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക 0122 നിങ്ങളുടെ പാസ്വേഡ് വീണ്ടും നൽകാൻ Facebook നിങ്ങളോട് ആവശ്യപ്പെടും 0130 നിങ്ങളുടെ പാസ്വേഡ് നൽകുക 0133 സ്വകാര്യതാ നയം സ്വീകരിക്കുന്നതിന് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്തത് ക്ലിക്കുചെയ്യുക 0136 ഇപ്പോൾ സ്വയം ഒരു ഡവലപ്പറായി രജിസ്റ്റർ ചെയ്യുന്നതിന് നിങ്ങളുടെ അക്കൌണ്ടിൽ ഒരു ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യണം അതിനാൽ നിങ്ങളുടെ ഫോൺ നമ്പർ നൽകുക 0143 തുടർന്ന് ടെക്സ്റ്റ് ആയി അയയ്ക്കുക ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു സ്ഥിരീകരണ കോഡുള്ള ഒരു SMS ലഭിക്കും 0149 നിയുക്ത ബോക്സിൽ ഈ സ്ഥിരീകരണ കോഡ് ഇടുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക 0154 നിങ്ങൾ വിജയകരമായി രജിസ്റ്റർ ചെയ്തുകഴിഞ്ഞാൽ നീല രജിസ്റ്റർ ബട്ടൺ ഇപ്പോൾ ഇല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും 0157 ആ രജിസ്റ്റർ ബട്ടണിന്റെ സ്ഥാനത്ത് മൈ ആപ്പ്സ് ഡ്രോപ്പ് ഡൌൺ മെനു ഉണ്ട് ഈ ഡ്രോപ്പ് ഡൌണിൽ ക്ലിക്ക് ചെയ്ത് ആഡ് എ ന്യൂ ആപ്പ് തിരഞ്ഞെടുക്കുക 0205 Www ഉപയോഗിച്ച് വെബ്സൈറ്റ് ഓപ്ഷനായി പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക 0211 നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആപ്പിന് ഒരു പേര് ചേർക്കുക ഉദാഹരണത്തിന് ടെസ്റ്റ് അണ്ടർസ്കോർ nptel 0220 പുതിയ Facebook ആപ്പ് ഐഡി ഉണ്ടാക്കുക ക്ലിക്ക് ചെയ്യുക ഈ ആപ്പിന് നിങ്ങൾ ഒരു കാറ്റഗറി നൽകേണ്ടതുണ്ട് 0228 നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയാം തുടർന്ന് നിങ്ങളുടെ ഇമെയിൽ ഐഡി ഇട്ട് ആപ്പ് ഐഡി ഉണ്ടാക്കുക ക്ലിക്ക് ചെയ്യുക 0231 നമ്മളുടെ സുരക്ഷാ പരിശോധന ഇവിടെ പോപ്പ് അപ്പ് ചെയ്യും മുകളിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക ഈ സാഹചര്യത്തിൽ എല്ലാ റിസ്റ്റ് വാച്ചുകളും തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നു ഉചിതമായ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് സമർപ്പിക്കുക 0244 അതിനാൽ ഇപ്പോൾ ഈ ആപ്പ് സൃഷ്ടിച്ചു 0247 കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഈ പേജ് നിങ്ങളുടെ വെബ്സൈറ്റ് ആവശ്യപ്പെടും ഇത് ശരിക്കും പ്രശ്നമല്ല ഏതെങ്കിലും സാധുവായ URL മതി 0255 നമുക്ക് "http www com" തിരഞ്ഞെടുക്കാം തുടർന്ന് അടുത്തത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക 0303 അതു തന്നെ നമ്മൾ APP സൃഷ്ടിക്കൽ പ്രക്രിയ പൂർത്തിയാക്കി സ്ലൈഡ് സമയം കാണുക 0314 ഇപ്പോൾ മുകളിൽ വലത് കോണിലുള്ള എന്റെ ആപ്പുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ APP പേരും ഐഡിയും കാണിക്കുന്ന ഈ പേജ് കാണാം 0316 അപ്ലിക്കേഷൻ ക്രമീകരണ പേജ് തുറക്കാൻ APP പേരിൽ ക്ലിക്ക് ചെയ്യുക 0321 ഇപ്പോൾ ആപ്പ് രഹസ്യ കോഡ് വെളിപ്പെടുത്താൻ ഈ കാണിക്കുക ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മളുടെ ആക്സസ് ടോക്കണിന്റെ സാധുത വർദ്ധിപ്പിക്കുന്നതിന് ഈ രണ്ട് വസ്തുക്കൾ ആപ്പ് ഐഡി ആപ്പ് സീക്രട്ട് എന്നിവ നമ്മൾ ഉപയോഗിക്കും 0356 ഒരു പുതിയ ടാബ് തുറന്ന് ഗ്രാഫ് API എക്സ്പ്ലോറർ വീണ്ടും തുറക്കുക മറ്റൊരു ടാബിൽ ആക്സസ് ടോക്കണുകളെക്കുറിച്ച് സംസാരിക്കുന്ന ഗ്രാഫ് API ഡോക്യുമെന്റേഷൻ പേജ് തുറക്കുക ഡോക്യുമെന്റേഷനിൽ നിങ്ങൾ ആക്സസ് ടോക്കൺ തിരയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേജ് എളുപ്പത്തിൽ കണ്ടെത്താനാകും 0358 ഈ ആക്സസ് ടോക്കണുകളുടെ എക്സ്സ്പിറേഷൻ ആൻഡ് എക്സ്സ്റ്റെൻഷൻ വിഭാഗത്തിലേക്ക് പോകുക അൽപ്പം താഴേക്ക് സ്ക്രോൾ ചെയ്യുക 0408 ആക്സസ് ടോക്കൺ വിപുലീകരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഗെറ്റ് റിക്വസ്റ്റ് അഭ്യർത്ഥനയുടെ ഫോർമാറ്റ് നിങ്ങൾ കാണും 0412 ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അഭ്യർത്ഥന നടത്താൻ നമ്മൾക്ക് മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് 0415 ക്ലയന്റ് ഐഡി 0416 ക്ലയന്റ് സീക്രട്ട് 0417 കൂടാതെ ഒരു അല്പായുസ്സായ ടോക്കൺ 0419 ക്ലയന്റ് ഐഡിയും ക്ലയന്റ് സീക്രട്ടും നമ്മൾ APP ടെസ്റ്റ് nptel സൃഷ്ടിച്ചപ്പോൾ അവസാന സ്ക്രീനിൽ ലഭിച്ച APP ഐഡിയും APP സീക്രട്ടും ആണ് 0430 ഇനി നമുക്ക് അല്പായുസ്സായ ടോക്കൺ ലഭിക്കും ഗ്രാഫ് API എക്സ്പ്ലോററിലേക്ക് മടങ്ങുക ആപ്ലിക്കേഷൻ ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ച ടെസ്റ്റ് അണ്ടർസ്കോർ nptel ആപ്പ് തിരഞ്ഞെടുക്കുക 0439 'ഗെറ്റ് ടോക്കൺ ക്ലിക്കുചെയ്യുക ഉപയോക്തൃ ടോക്കൺ നേടുക 0446 വീണ്ടും ഏതെങ്കിലും അനുമതി തിരഞ്ഞെടുത്ത് ഇമെയിൽ പറയുക ഗെറ്റ് ആക്സസ് ടോക്കൺ' ക്ലിക്കുചെയ്യുക 0456 നിങ്ങളുടെ സ്വന്തം ടെസ്റ്റ് അണ്ടർസ്കോർ nptel APP ഉപയോഗിച്ച് സൃഷ്ടിച്ച ഈ അല്പായുസ്സുള്ള ആക്സസ് ടോക്കൺ നിങ്ങൾക്ക് ഉണ്ട് വീണ്ടും നിങ്ങൾ ആക്സസ് ടോക്കൺ ടൂളിൽ ഈ ആക്സസ് ടോക്കൺ തുറന്നാൽ 0504 ഈ ടോക്കണും ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ കാലഹരണപ്പെടുന്നതായി നിങ്ങൾ കാണും 0510 വിപുലമായ ആക്സസ് ടോക്കൺ ലഭിക്കുന്നതിന് ആവശ്യമായ മൂന്ന് ഘടകങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട് 0534 അതിനാൽ ഇപ്പോൾ ഒരു പുതിയ ടാബ് തുറന്ന് http graphs com എന്ന് ടൈപ്പ് ചെയ്യുക എക്സ്ചേഞ്ച് അണ്ടർസ്കോർ ടോക്കൺ ക്ലയന്റ് അണ്ടർസ്കോർ ഐഡി ആപ്പ് ഐഡിക്ക് തുല്യമാണ് 0557 ക്ലയന്റ് അണ്ടർസ്കോർ സീക്രെട് APP രഹസ്യത്തിന് തുല്യമാണ് fb അണ്ടർസ്കോർ എക്സ്ചേഞ്ച് അണ്ടർസ്കോർ ടോക്കൺ നമ്മൾ ഇപ്പോൾ സൃഷ്ടിച്ച ഹ്രസ്വ ടോക്കണിന് തുല്യമാണ് 0640 0645 എന്റർ അമർത്തുക 0654 ഈ അഭ്യർത്ഥന https ഉപയോഗിച്ച് ചെയ്യേണ്ടതുണ്ട് അതിനാൽ അഡ്രസ് ബാറിൽ തുടക്കത്തിൽ https ചേർത്ത് എന്റർ അമർത്തുക നിങ്ങൾ ഇവിടെ പോകുക നമ്മൾ വിജയകരമായി ഒരു വിപുലീകരിച്ച ആക്സസ് ടോക്കൺ സൃഷ്ടിച്ചു 0701 ഇപ്പോൾ ഈ ആക്സസ് ടോക്കൺ പകർത്തുക ആക്സസ് അണ്ടർസ്കോർ ടോക്കൺ ഈസ് ഈക്വൽ ടു' മുതൽ ആമ്പേഴ്സാൻഡ് ചിഹ്നത്തിന് തൊട്ടുമുമ്പ് വരെ 0718 ഈ ടോക്കൺ പകർത്തുക ഗ്രാഫ് API എക്സ്പ്ലോററിൽ ഇത് ഒട്ടിക്കുക ആക്സസ് ടോക്കൺ ടൂൾ തുറക്കുക 0734 ഈ ടോക്കൺ രണ്ട് മാസത്തേക്ക് സാധുതയുള്ളതാണെന്ന് നിങ്ങൾ ഇവിടെ കാണുന്നു 0740 നിങ്ങൾ ഡോക്യുമെന്റേഷനിലേക്ക് മടങ്ങുകയാണെങ്കിൽ എക്സ്സ്റ്റെൻഡഡ് ടോക്കൺ ഏകദേശം 60 ദിവസത്തേക്ക് നല്ലതാണെന്ന് ഡോക്യുമെന്റേഷൻ പേജും പറയുന്നു അതിനാൽ 60 ദിവസത്തേക്ക് കാലഹരണപ്പെടാത്ത ഒരു ടോക്കൺ ഇപ്പോൾ നമ്മളുടെ പക്കലുണ്ട് ഗ്രാഫ് API ൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നതിന് നമ്മൾ നമ്മളുടെ പ്രോഗ്രാം എഴുതാൻ തയ്യാറാണ് 0804 ഇത് ചെയ്യുന്നതിന് പൈത്തണിലെ ടെർമിനൽ നമ്മൾ ഉപയോഗിക്കും ഇത് മുൻ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചു അതിനാൽ ടെർമിനൽ തുറന്ന് vi എഡിറ്റർ ഉപയോഗിച്ച് ഒരു പുതിയ പൈത്തൺ സ്ക്രിപ്റ്റ് സൃഷ്ടിക്കുക നമുക്ക് ഫേസ്ബുക്ക് അണ്ടർസ്കോർ ഡാറ്റ ഡോട്ട് പൈ ഉപയോഗിക്കാം 0821 മുമ്പത്തെ ട്യൂട്ടോറിയലിൽ കണ്ട റിക്വസ്റ്റ് ലൈബ്രറി ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ http റിക്വസ്റ്റ് കൾ നടത്താൻ ഉപയോഗിക്കുന്ന പൈത്തൺ ലൈബ്രറിയാണ് റിക്വസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു പുതിയ ഫംഗ്ഷൻ നിർവ്വചിക്കുന്നു അണ്ടർസ്കോർ പേജ് അണ്ടർസ്കോർ ഡാറ്റ നേടുക ഇത് ഒരു പാരാമീറ്റർ എടുക്കുന്നു അത് പേജ് ഐഡി ആണ് ഫംഗ്ഷൻ ബോഡിയുടെ ആരംഭം ഒരു കൊളോൺ അടയാളം സൂചിപ്പിക്കുന്നു പൈത്തൺ ഒരു ഇൻഡന്റേഷൻ അടിസ്ഥാന ഭാഷയാണ് അതിനാൽ ഒരു ഫംഗ്ഷനുള്ളിലെ ഒരു കോഡ് ബ്ലോക്ക് നിർവ്വചിക്കാൻ നമ്മൾ ഫംഗ്ഷന്റെ മുഴുവൻ ശരീരത്തിലും ഒരു ഇൻഡെൻറേഷൻ ലെവൽ ചേർക്കും ഇത് C അല്ലെങ്കിൽ C ലെ ചുരുണ്ട ബ്രേസുകൾക്ക് തുല്യമാണ് സിയിലെ ചുരുണ്ട ബ്രേസുകളിൽ ഒരു ഫംഗ്ഷന്റെ ബോഡി നിർവ്വചിച്ചിരിക്കുന്നതുപോലെ ഫംഗ്ഷൻ ബോഡി ഒരു ഇൻഡന്റേഷൻ ലെവലിൽ നിർവചിക്കപ്പെടുന്നു നിങ്ങൾ ഒരു താഴ്ന്ന ഇൻഡെൻറേഷൻ ലെവലിൽ തിരിച്ചെത്തിയാൽ നിങ്ങൾ ഫംഗ്ഷൻ ബോഡിയിൽ നിന്ന് പുറത്തുകടക്കും അതിനാൽ ഒരു ഇൻഡന്റേഷൻ ലെവൽ സൃഷ്ടിക്കാൻ നമ്മൾ ടാബ് അമർത്തി ഫംഗ്ഷൻ ബോഡി നിർവ്വചിക്കാൻ തുടങ്ങും നമ്മൾ ആദ്യം ഒരു വേരിയബിൾ നിർവ്വചിക്കുന്നു അതിൽ നമ്മൾ റിക്വസ്റ്റ് അയയ്ക്കുന്ന URL അടങ്ങിയിരിക്കുന്നു ഉദാഹരണത്തിന് URL ഈസ് ഈക്വൽ ടു http ഗ്രാഫ് https ഗ്രാഫ് ഡോട്ട് ഫെയ്സ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് പേജ് ഐഡി സ്ട്രിംഗ് ഫോർമാറ്റിലേക്ക് പരിവർത്തനം ചെയ്തു നിങ്ങൾക്ക് പൈത്തണിലെ സ്ട്രിംഗുകൾ സംയോജിപ്പിക്കാൻ പ്ലസ് ചിഹ്നം ഉപയോഗിക്കാം സ്ലാഷ് ഫൂട്ട് ചോദ്യ മാർക്ക് ലിമിറ്റ് ഈസ് ഈക്വൽ ടു നൂറ് ആൻഡ് ആക്സസ് ടോക്കൺ ഈസ് ഈക്വൽ ടു ആക്സസ് അണ്ടർസ്കോർ ടോക്കൺ ഇപ്പോൾ നമുക്ക് ഈ ആക്സസ് അണ്ടർസ്കോർ ടോക്കൺ വേരിയബിൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ആക്സസ് അണ്ടർസ്കോർ ടോക്കൺ ഈസ് ഈക്വൽ ടു 1021 നമ്മൾ ഇപ്പോൾ സൃഷ്ടിച്ച വിപുലീകരിച്ച ടോക്കൺ എന്ന് നമ്മൾ പറയുന്നു 1037 ഇപ്പോൾ നമ്മൾ ഡാറ്റ അപേക്ഷകൾക്ക് തുല്യമാണ് URL നേടുക എന്ന് ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ ഈ URL ലേക്ക് ഒരു ഗെറ്റ് റിക്വസ്റ്റ് അയയ്ക്കുകയും പ്രതികരണം ഒരു വേരിയബിൾ നെയിം ഡാറ്റയിൽ സംഭരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾക്ക് ഈ പ്രതികരണത്തിന്റെ ഒരു ടെക്സ്റ്റ് ഭാഗം ആവശ്യമാണ് അതിൽ ഗ്രാഫ് API നൽകിയ ഡാറ്റ അടങ്ങിയിരിക്കും അതിനാൽ ഡാറ്റയുടെ ടെക്സ്റ്റ് ഭാഗം റെസ്പോൺസ് എന്ന മറ്റൊരു വേരിയബിളിൽ നമ്മൾ സംഭരിക്കുന്നു നമ്മൾ പ്രിന്റ് റെസ്പോൺസ്' ഉപയോഗിക്കുന്നു ഫംഗ്ഷൻ ബോഡിയുടെ അവസാനത്തെ സൂചിപ്പിക്കുന്ന യഥാർത്ഥ ഇൻഡെൻറേഷൻ ലേക്ക് നമ്മൾ മടങ്ങുന്നു ഇപ്പോൾ ഈ ഫംഗ്ഷനെ വിളിക്കാൻ നമ്മൾ ഫംഗ്ഷൻ നാമം ടൈപ്പുചെയ്യുന്നു തുടർന്ന് പരാൻതീസിസ് 1139 പരാൻതീസിസിൽ പേജ് ഐഡി പാരാമീറ്റർ നമ്മൾ ചേർക്കേണ്ടതാണ് നമ്മൾ എക്സ്പ്ലോറർ ലേക്ക് മടങ്ങുക NPTEL പേജുകൾക്കായി വീണ്ടും തിരയുക രണ്ടാമത്തെ ഫലത്തിന്റെ പേജ് ഐഡി നേടുക അത് പകർത്തുക ഖുയോട്ടിൽ ഒട്ടിക്കുക 1211 ഇപ്പോൾ നമ്മൾ ഈ ഫയൽ എഴുതുകയും എസ്കേപ്പ് കോളൻ wq എന്റർ അമർത്തിക്കൊണ്ട് എഡിറ്റർ ക്വിറ്റ് ചെയ്യുകയും ചെയ്യുന്നു 1223 ഇപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പൈത്തൺ സ്പേസ് ഫേസ്ബുക്ക് അണ്ടർസ്കോർ ഡാറ്റ ഡോട്ട് പി വൈ ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക 1235 നിങ്ങൾക്ക് ഒരു മുഴുവൻ ഡാറ്റയും ഒരു JSON ഫോർമാറ്റിൽ എഴുതാം ഗ്രാഫ് API പര്യവേക്ഷകനിൽ നിന്ന് നിങ്ങൾ കണ്ട അതേ പ്രതികരണമാണിത് ഇതിന് ലൈൻ ബ്രേക്കുകളൊന്നുമില്ല അതിനാൽ ഈ ഫോർമാറ്റിൽ മനസ്സിലാക്കാൻ ഇത് ബുദ്ധിമുട്ടാണ് 1256 ഈ ഡാറ്റ കൂടുതൽ കാര്യക്ഷമമായി വായിക്കാൻ JSON ഒബ്ജക്റ്റുകൾ കടന്നുപോകാൻ ഉപയോഗിക്കുന്ന പൈത്തണിനായി നമ്മൾ JSON ലൈബ്രറി ഉപയോഗിക്കും ഗ്രാഫ് API എഴുതിയ ഡാറ്റ JSON ഫോർമാറ്റിലാണെന്ന് നമ്മൾ ചർച്ച ചെയ്തതായി ഓർക്കുന്നുവെങ്കിൽ അതിനാൽ നിങ്ങൾ ഇമ്പോർട് j s o n എന്ന് ടൈപ്പ് ചെയ്യുക മിക്ക കേസുകളിലും ഈ ലൈബ്രറി പൈത്തണിൽ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തുകിട്ടും നിങ്ങൾ ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കോഡ് പ്രവർത്തിപ്പിക്കുമ്പോൾ json എന്ന മൊഡ്യൂൾ നാമം ഇല്ലെന്ന് പറയുന്ന ഒരു എറർ സന്ദേശം നിങ്ങൾ കാണും ആദ്യ ട്യൂട്ടോറിയലിൽ നമ്മൾ ചർച്ച ചെയ്ത പിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും ടെർമിനലിൽ sudo pip install json എന്ന് ടൈപ്പ് ചെയ്താൽ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യും നമ്മൾ ഇപ്പോൾ json ഡോട്ട് ഡാറ്റ ഡോട്ട് ടെക്സ്റ്റ് ഉപയോഗിച്ച് JSON ഫോർമാറ്റിൽ പ്രതികരണ വാചകം ലോഡ് ചെയ്യുകയും JSON റെസ്പോൺസ് ന്റെ ഡാറ്റാ ഫീൽഡിൽ നിലവിലുള്ള വിവരങ്ങൾ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നു JSON ഫോർമാറ്റ് പ്രധാനമായും ഒരു കീ വാല്യൂ പെയർ ബേസ്ഡ് ഫോർമാറ്റാണ് അവിടെ കീ ഫീൽഡിന്റെ പേരാണ് മൂല്യം ഈ ഫീൽഡിൽ നിലവിലുള്ള വിവരങ്ങളാണ് ചതുരാകൃതിയിലുള്ള ബ്രേസുകളിൽ ഈ സ്ട്രിംഗ് ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ റെസ്പോൺസ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഡാറ്റയാണ് പ്രധാനം ഈ ഫീൽഡിലെ എല്ലാ പോസ്റ്റ് പ്രീസെറ്റും മൂല്യങ്ങളാണ് 1408 Now notice that the content present in the data field is a list which is similar to an array in C or C ഡാറ്റാ ഫീൽഡിൽ ഉള്ളടക്കം C അല്ലെങ്കിൽ C ലെ ഒരു ശ്രേണിക്ക് സമാനമായ ഒരു പട്ടികയാണെന്ന് ഇപ്പോൾ ശ്രദ്ധിക്കുക 1423 അതിനാൽ ഈ ലിസ്റ്റിലെ 0 ാമത്തെ ഘടകം നമുക്ക് പ്രിന്റ് ചെയ്യാം അതാണ് പോസ്റ്റ് 1433 ഗ്രാഫ് API എക്സ്പ്ലോററിൽ നമ്മൾ കണ്ടതുപോലെ ഇത് ആദ്യ പോസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ എക്സ്പ്ലോറർ ഉപയോഗിച്ചതുപോലെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് API യുടെ 2 0 പതിപ്പ് അന്വേഷിക്കാൻ ശ്രമിക്കാം 1452 അതിനാൽ URL ലെ പേജ് ഐഡിക്ക് തൊട്ടുമുമ്പ് നമ്മൾ v 2 0 സ്ലാഷ് ചേർക്കുന്നു 1505 കോഡ് വീണ്ടും പ്രവർത്തിപ്പിക്കുക ലഭിച്ച പ്രതികരണം പതിപ്പ് 2 6 ൽ നിങ്ങൾക്ക് ലഭിച്ചതിന് സമാനമാണ് അധിക വിവരങ്ങളൊന്നും തിരികെ നൽകിയിട്ടില്ല 1519 എന്തുകൊണ്ടാണത് നിങ്ങൾ എക്സ്പ്ലോറർ ലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇ വേർഷൻ ഡ്രോപ്പ് ഡൌണിൽ API യുടെ പഴയ പതിപ്പുകളൊന്നും ലഭ്യമല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു 1530 കാരണം നിങ്ങൾ ഒരു പുതിയ ആപ്പ് സൃഷ്ടിക്കുമ്പോൾ ഈ പുതിയ ആപ്പിന് നിലവിലെ പതിപ്പിനപ്പുറം API യുടെ ഏതെങ്കിലും പഴയ പതിപ്പുകളിലേക്ക് ആക്സസ് ഇല്ല ഈ സാഹചര്യത്തിൽ പതിപ്പ് 2 6 നിലവിലെ പതിപ്പായതിനാൽ പതിപ്പ് 2 6 പുറത്തിറങ്ങിയതിനുശേഷം ഞങ്ങളുടെ APP സൃഷ്ടിക്കപ്പെട്ടതിനാൽ പതിപ്പിന് 2 6 ന് മുമ്പ് ഞങ്ങളുടെ APP യ്ക്ക് ഒരു API പതിപ്പിലേക്കും പ്രവേശനമില്ല നിങ്ങൾ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന APP എന്നത് ഗ്രാഫ് API എക്സ്പ്ലോറർ APP ആണെന്ന് ഓർക്കുക അത് വളരെക്കാലം മുമ്പ് Facebook തന്നെ സൃഷ്ടിച്ചതാണ് അതിനാൽ ഇതിന് API യുടെ എല്ലാ പഴയ പതിപ്പുകളിലേക്കും ആക്സസ് ഉണ്ട് അതിനാൽ API മടക്കിനൽകിയ ഡാറ്റ ലിസ്റ്റിലെ പോസ്റ്റുകൾ ആവർത്തിക്കാൻ ശ്രമിക്കാം ഇത് ചെയ്യുന്നതിന് നമ്മൾ പൈത്തണിലെ ഫോർ ലൂപ്പ് ഉപയോഗിക്കും post in response square braces data colon പോസ്റ്റ് ഇൻ റെസ്പോൺസ് സ്ക്വയർ ബ്രേസ് ഡാറ്റ കോളൻ ഇപ്പോൾ ഫംഗ്ഷനായി നമ്മൾ ചെയ്തതുപോലെ ബോഡി ഫോർ ലൂപ്പിനായി നിർവ്വചിക്കാൻ നമ്മൾ ഒരു പുതിയ ഇൻഡെൻറേഷൻ ലെവൽ സൃഷ്ടിക്കുന്നു പോസ്റ്റ് സ്ക്വയർ ബ്രേസ് സന്ദേശം പ്രിന്റ് ചെയ്യുക ഇപ്പോൾ ഈ ലൂപ്പ് എന്തു ചെയ്യും അത് ഡാറ്റ ലിസ്റ്റിലെ ഓരോ ഘടകങ്ങളും അല്ലെങ്കിൽ പോസ്റ്റുകളും ഓരോന്നായി കടന്നുപോകുകയും പോസ്റ്റ് എന്ന് പേരുള്ള ഈ വേരിയബിളിന് ഘടകം നൽകുകയും ചെയ്യും നമ്മൾ ലൂപ്പിനുള്ളിലായിരിക്കുമ്പോൾ ഈ പോസ്റ്റ് വേരിയബിൾ ലൂപ്പ് ആവർത്തിക്കുന്ന നിലവിലെ ഘടകം സംഭരിക്കും ഈ പോസ്റ്റ് വേരിയബിളിന്റെ ഉള്ളടക്കങ്ങൾ ഫോർ ലൂപ്പിന്റെ ഓരോ ആവർത്തനത്തിലും അപ്ഡേറ്റ് ചെയ്യും എല്ലാ പോസ്റ്റുകളും ആവർത്തിക്കുന്നതുവരെ ഓരോ ആവർത്തനത്തിലും പോസ്റ്റിലെ സന്ദേശ കീയുമായി ബന്ധപ്പെട്ട മൂല്യം നമ്മൾ പ്രിന്റ് ചെയ്യും വ്യത്യസ്ത പോസ്റ്റുകൾ തമ്മിൽ വേർതിരിച്ചറിയാൻ നമ്മൾ കുറച്ച് പുതിയ വരികൾ പ്രിന്റ് ചെയുന്നു ഇനി നമുക്ക് ഈ കോഡ് പ്രവർത്തിപ്പിക്കാം അച്ചടിച്ച എല്ലാ സന്ദേശങ്ങളും രണ്ട് ശൂന്യമായ വരികളാൽ വേർതിരിച്ചതായി നിങ്ങൾ കാണുന്നു ഫലങ്ങൾ ഒന്നിലധികം പേജുകളിൽ തിരിച്ചെത്തുമ്പോൾ API പ്രതികരണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോൾ നമുക്ക് പഠിക്കാം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഫലങ്ങളുടെ എണ്ണം ഒരു നിശ്ചിത പരിധിയേക്കാൾ കൂടുതലാണെങ്കിൽ സമ്പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങൾ സന്ദർശിക്കേണ്ട ഫലങ്ങളുടെ അടുത്ത പേജിലേക്ക് ഒരു യുആർഎല്ലും എപിഐ നൽകുന്നുവെന്ന് നമ്മൾ ആദ്യ ട്യൂട്ടോറിയലിൽ കണ്ടു അതിനാൽ നമുക്ക് ഈ പരിധി 20 എന്ന് ചുരുക്കാം അങ്ങനെ ഓരോ പേജിലും നമുക്ക് 20 ഫലങ്ങൾ ലഭിക്കും നമ്മൾ അന്വേഷിക്കുന്ന NPTEL പേജിൽ മൊത്തം 65 പോസ്റ്റുകൾ ഉണ്ടെന്ന് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ ഈ പരിധി 20 ആക്കിയാൽ നമുക്ക് നാല് പേജുകളിലായി ഫലങ്ങൾ ലഭിക്കും ആദ്യ മൂന്ന് പേജുകൾ 20 ഫലങ്ങൾ വീതം അടങ്ങിയിരിക്കുന്നു അതായത് 60 നാലാമത്തെ പേജ് അഞ്ച് പോസ്റ്റുകൾ കൂടി ആകെ 65 അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത പേജ് യുആർഎല്ലിന്റെ ട്രാക്ക് സൂക്ഷിക്കുന്ന ഒരു ലൂപ്പ് സൃഷ്ടിക്കുന്നതിന് ആവശ്യമുള്ളിടത്തോളം അടുത്ത പേജിൽ അന്വേഷണം തുടരുക API പ്രതികരണത്തിൽ ഇനി ഒരു അടുത്ത പേജ് URL അടങ്ങിയിട്ടില്ല അതിനാൽ അടുത്ത നെക്സ്റ്റ് അണ്ടർസ്കോർ പേജ് ഈസ് ഈക്വൽ റ്റു റെസ്പോൻസ് പേജിങ് നെക്സ്റ്റ് നമ്മൾ ടൈപ്പ്ചെയുന്നു പ്രതികരണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പേജിംഗ് എന്ന ഈ കീ ഉണ്ട് പേജിംഗിനുള്ളിൽ മുമ്പും പിന്നെയും രണ്ട് കീകൾ വീണ്ടും ഉണ്ട് അടുത്ത കീയുമായി ബന്ധപ്പെട്ട മൂല്യം നമ്മൾക്ക് ആവശ്യമാണ് അതിനാൽ API പ്രതികരണത്തിൽ ഏതെങ്കിലും പേജിംഗ് കീ അടങ്ങിയിട്ടില്ലാത്തതുവരെ നമ്മൾ ഈ അടുത്ത പേജ് സന്ദർശിക്കുന്നത് തുടരും ഡാറ്റ കീ ഇപ്പോഴും നിലവിലുണ്ടെന്ന് ശ്രദ്ധിക്കുക പക്ഷേ ഇത് ഇപ്പോൾ ഒരു ശൂന്യമായ പട്ടികയാണ് അതായത് നമ്മൾക്ക് പ്രതികരണങ്ങൾ തീർന്നു ഡീഫോൾട് ആയി ഒരു പരിധി 25 ആയി നിശ്ചയിച്ചിട്ടുള്ളതിനാൽ നമ്മൾ ഇവിടെ മൂന്ന് പേജുകൾ മാത്രമാണ് കണ്ടത് അതിനാൽ ആദ്യ രണ്ട് പേജുകളിൽ 50 അതായത് 25 25 പോസ്റ്റുകൾ അടങ്ങിയിരിക്കുന്നു മൂന്നാമത്തെ പേജിൽ ബാക്കി 15 എണ്ണം 65 ആയി ഈ അവസാന പേജ് ശൂന്യമാണ് അതിനാൽ ഫലങ്ങളുടെ ആദ്യ പേജിലെ അടുത്ത പേജ് URL നമ്മൾ എടുക്കുന്നു അച്ചടി പ്രസ്താവനയ്ക്ക് ശേഷം നമുക്ക് ഇത് നീക്കാം നമ്മൾ വൈല് നെക്സ്റ്റ് അണ്ടർസ്കോർ പേജ് കോളൻ ഉപയോഗിച്ചു മറ്റൊരു ലൂപ്പ് ആരംഭിക്കുന്നു ഇത് ഒരു 'വൈല് ലൂപ്പ് ആണ് അതിനാൽ അടുത്ത പേജ് വേരിയബിളിൽ എന്തെങ്കിലും ഉള്ളിടത്തോളം കാലം ഈ ലൂപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഈ ലൂപ്പിനുള്ളിൽ നമ്മൾ ഈ അടുത്ത URL ലേക്ക് ഒരു ഗെറ്റ് റിക്വസ്റ്റ് അയയ്ക്കുകയും പ്രതികരണം 'റെസ്പോൺസ്' എന്ന വേരിയബിളിൽ സംഭരിക്കുകയും ചെയ്യുന്നു ഈ അടുത്ത പേജിലെ ഉള്ളടക്കങ്ങൾക്കൊപ്പം നമ്മൾ റെസ്പോൺസ് തിരുത്തിയെഴുതുകയാണ് നമുക്ക് ഒരു ഡീബഗ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കാം ലൂപ്പ് ആരംഭിക്കുമ്പോൾ അടുത്ത പേജ് കാണാം അതിനാൽ ഈ ലൂപ്പ് പ്രവർത്തിപ്പിക്കുമ്പോഴെല്ലാം ഒരു അടുത്ത പേജ് നമ്മൾ കണ്ടെത്തിയെന്ന് പറയുന്ന ഈ സന്ദേശം അച്ചടിക്കും ആശയക്കുഴപ്പം ഒഴിവാക്കാൻ മുമ്പത്തെ പ്രിന്റ് സ്റ്റെമെന്റ്സിൽ നമുക്ക് കമന്റ് ഇടാം ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ച ഈ പുതിയ പ്രതികരണത്തിൽ പേജിംഗ് എന്ന കീ ഉണ്ടോ എന്ന് പരിശോധിക്കും റെസ്പോൺസ് പേജിംഗ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനുള്ളിൽ പേജിംഗിൽ ഒരു 'നെക്സ്റ്റ് കീ ഉണ്ടോ എന്ന് നമ്മൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഒരു പേജിംഗ് കീ ഉണ്ടെന്ന് സംഭവിക്കാം പക്ഷേ ഇതിന് ഒരു മുൻ പേജ് മാത്രമേയുള്ളൂ അടുത്ത പേജില്ല അതിനാൽ പേജിംഗ് കീയിൽ മാത്രം നമുക്ക് ആശ്രയിക്കാനാവില്ല അതിനാൽ ഈ if ബ്ലോക്കിനുള്ളിൽ റെസ്പോൺസ് പേജിൽ അടുത്തത് ഉണ്ടോ എന്ന് നമ്മൾ വീണ്ടും പരിശോധിക്കുന്നു മേൽപ്പറഞ്ഞ രണ്ട് വ്യവസ്ഥകളും ശരിയാണെങ്കിൽ അടുത്ത പേജ് ഉണ്ടെന്ന് നമുക്കറിയാം അതിനാൽ ഈ നെക്സ്റ്റ് അണ്ടർസ്കോറെ പേജ് വേരിയബിളിന്റെ മൂല്യം അടുത്ത പേജ് URL ഉപയോഗിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു അതിനാൽ നെക്സ്റ്റ് അണ്ടർസ്കോർ പേജ് ഈസ് ഈക്വൽ റ്റു റെസ്പോൺസ് പേജിങ് നെക്സ്റ്റ് ഇനി അടുത്ത പേജ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രിന്റ് നോട് ഫൌണ്ട് കൂടാതെ നെക്സ്റ്റ് അണ്ടർസ്കോർ പേജ് നൻ അതിനാൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ വൈല് ലൂപ്പിലെ അവസ്ഥ തെറ്റായി മാറും നെക്സ്റ്റ് അണ്ടർസ്കോർ പേജ് ഫീൽഡ് ശൂന്യമാണെങ്കിൽ അടുത്ത ആവർത്തനത്തിൽ ലൂപ്പ് തകരും അതുപോലെ റെസ്പോൺസ് ൽ പേജിംഗ് കീ ഇല്ലെങ്കിൽ ബാഹ്യമായ if ബ്ലോക്ക് എന്നതിന് അനുയോജ്യമായ ഒരു 'എൽസ് ബ്ലോക്ക് നമ്മൾ സൃഷ്ടിക്കുന്നു പ്രിന്റ് പേജിംഗ് നോട് ഫൌണ്ട് നെക്സ്റ്റ് അണ്ടർസ്കോർ പേജ് വേരിയബിൾ none നൻ എന്ന് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക നമുക്ക് ഈ ഫയൽ സേവ് ചെയ്ത് എഡിറ്ററിൽ നിന്ന് പുറത്തുകടന്ന് ഈ കോഡ് പ്രവർത്തിപ്പിക്കാം ടെർമിനൽ മായ്ക്കുക പൈത്തൺ സ്പേസ് ഫെയ്സ്ബുക്ക് അണ്ടർസ്കോർ ഡാറ്റ ഡോട്ട് പൈ ഓക്കേ നൽകുക 16 ആം വരിയിൽ ഒരു പിശക് ഉണ്ട് വൈൽ ലൂപ്പിനുള്ളിൽ ഗെറ്റ് റിക്വസ്റ്റ് എന്നതിൽ ഡോട്ട് ടെക്സ്റ്റ് ഭാഗം ചേർക്കാൻ നമ്മൾ മറന്നു നമ്മൾ ഡോട്ട് ടെക്സ്റ്റ് ചേർക്കുന്നു സേവ് ചെയുക കോഡ് വീണ്ടും പ്രവർത്തിപ്പിക്കുക ക്ലിയർ ബഫർ പൈത്തൺ സ്പേസ് ഫെയ്സ്ബുക്ക് അണ്ടർസ്കോർ ഡാറ്റ ഡോട്ട് പൈ നൽകുക നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തതുപോലെ നാല് പേജുകൾ കണ്ടെത്തി അഞ്ചാമത്തെ പേജിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പേജിംഗ് കീ അടങ്ങിയിട്ടില്ല അതിനാൽ ലൂപ്പ് ബ്രേക്ക് ചെയ്തു അതിനാൽ ഇപ്പോൾ പൈത്തൺ ഉപയോഗിച്ച് പേജിംഗ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും നമ്മൾ പഠിച്ചു ഒരു അവസാന വ്യായാമമെന്ന നിലയിൽ പൈത്തണിലൂടെ ഒരു പോസ്റ്റിൽ എങ്ങനെ ലൈക്കുകൾ ശേഖരിക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനുവേണ്ടി results post underscore id is equal to response data 0 id ഫലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ പോസ്റ്റിന്റെ ഐഡി നമ്മൾ എടുക്കുന്നു ലൈക്കുകൾ ലഭിക്കുന്നതിന് URL അടങ്ങിയ ഒരു വേരിയബിൾ നമ്മൾ നിർവ്വചിക്കുന്നു ലൈക്കുകൾ അണ്ടർസ്കോർ URL ഈസ് ഈക്വൽ ട്ടു https ഗ്രാഫ് ഡോട്ട് facebook ഡോട്ട് കോം സ്ലാഷ് പോസ്റ്റ് ഐഡി സ്ലാഷ് ലൈക്കുകൾ ചോദ്യചിഹ്നം ലിമിറ്റ് ഈസ് ഈക്വൽ ട്ടു 100 ആൻഡ് ആക്സസ് അണ്ടർസ്കോർ ടോക്കൺ ഈസ് ഈക്വൽ ട്ടു ആക്സസ് ടോക്കൺ' നമുക്ക് പോസ്റ്റ് ഐഡി പ്രിന്റ് ചെയ്യാം അതിനുശേഷം റെസ്പോൺസ് നേരിട്ട് പ്രിന്റ് ചെയ്യാം നമ്മൾ print requests dot get likes underscore URL dot text എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇതിന് ശേഷം നമുക്ക് ഒരു എക്സിറ്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾക്ക് ബാക്കിയുള്ള കോഡ് ആവശ്യമില്ല അതിനാൽ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ശേഷം പ്രോഗ്രാം എക്സിറ്റ് ചെയ്യും എഡിറ്റർ സേവ് ചെയ്തു എക്സിറ്റ് ടെർമിനൽ മായ്ക്കുക കൂടാതെ പൈത്തൺ സ്പേസ് ഫേസ്ബുക്ക് അണ്ടർസ്കോർ ഡാറ്റ ഡോട്ട് പി വൈ എന്റർ ചെയ്യുക ഒപ്പം ആദ്യ പോസ്റ്റിന്റെ പോസ്റ്റ് ഐഡിയും തുടർന്ന് ലൈക്കുകളും കാണാം ഈ ഫലങ്ങൾ പരിശോധിക്കാൻ ഈ പോസ്റ്റ് ഐഡി പകർത്തുക ഗ്രാഫ് API എക്സ്പ്ലോററിലേക്ക് മടങ്ങുക പോയി സ്ലാഷ് ലൈക്കുകൾ എന്നത ചോദ്യ ബാറിൽ ഒട്ടിക്കുക എന്റർ അമർത്തുക അതേ ഫലങ്ങൾ ഇവിടെയും കാണിക്കുന്നു അതിനാൽ ഈ ട്യൂട്ടോറിയലിൽ ഫേസ്ബുക്ക് ഗ്രാഫ് എപിഐയുടെ അടിസ്ഥാനകാര്യങ്ങൾ നമ്മൾ ആദ്യം മുതൽ പഠിച്ചു പൈത്തൺ ഉപയോഗിച്ച് എപിഐയിൽ നിന്ന് എങ്ങനെ പ്രോഗ്രാമാറ്റിക്കായി ഡാറ്റ ശേഖരിക്കാമെന്ന് നമ്മൾ കണ്ടു അടുത്ത ട്യൂട്ടോറിയലിൽ ട്വിറ്ററിൽ നിന്ന് എങ്ങനെ ശേഖരിക്കാമെന്നും ഡാറ്റാബേസുകളിൽ ഡാറ്റ എങ്ങനെ സംഭരിക്കാമെന്നും നമ്മൾ പഠിക്കും